എൻജിനീയറിങ് മാത്തമാറ്റിക്സ് II എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ 16 ാമത്തെ പ്രഭാഷണം ആണ് ഇത് കോച്ചി ഇന്റഗ്രൽ ഫോർമുല യെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സിംപ്ലി കണക്ടഡും മൾട്ടിപ്ലി കണക്ടഡും ആയ ഡൊമൈനുകൾക്കുള്ള കോച്ചി ഇന്റഗ്രൽ ഫോർമുല പഠിക്കും അതിനു ശേഷം ഇന്റഗ്രലിന്റെ അടിസ്ഥാനത്തിൽ അനലിറ്റിക് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റിവിലേക്ക് നീങ്ങും അനലിറ്റിക് ഫങ്ഷന്റെ ഡെറിവേറ്റിവ് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാണാം അതിനുശേഷം കോച്ചി ഇന്റഗ്രൽ ഫോർമുലഉപയോഗിച്ച് ലൈൻ ഇന്റഗ്രൽ എങ്ങനെ വിലയിരുത്താം എന്നതിലേക്കു നമ്മൾ പോകും മുൻ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്തത് എന്താണെന്ന് ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ കോച്ചി ഇന്റഗ്രൽ തിയറം എന്താണന്നു കണ്ടു തിയറം ഇങ്ങനെയായിരുന്നു C എന്നത് ഒരു സിംപിൾ കണക്ടഡ് ഡൈമെയ്ൻ D യിലെ ഒരു സിംപിൾ ക്ലോസ്ഡ് കേർവ് ആണെങ്കിൽ Cfzdz0 ആയിരിക്കും അപ്പോൾ അതായിരുന്നു കോച്ചി ഇന്റഗ്രൽ തിയറം അതുപോലെ ഈ തിയറം ഉപയോഗിച്ച് ലൈൻ ഇന്റഗ്രലുകൾ എങ്ങനെ കാണാം എന്നതിനു പല ഉദാഹരണങ്ങളിൽ കൂടി നമ്മൾ പോയിരുന്നു അപ്പോൾ ഇന്ന് ആദ്യമായി ഞാൻ പറയുവാൻ പോകുന്നത് റിവേഴ്സ് കോച്ചി ഇന്റഗ്രൽ തിയറം അല്ലെങ്കിൽ കോച്ചി ഇന്റഗ്രൽ സിദ്ധാന്തത്തിന്റെ വിപരീതം എന്നൊക്കെ പറയാവുന്ന ഒരു തിയറത്തിനെക്കുറിച്ചാണ് ഈ സിദ്ധാന്തം മൊറേറ സിദ്ധാന്തം എന്ന് വിളിക്കപ്പെടുന്നു ഇതിൻറെ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് ഒന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ നേരെ കോച്ചി ഇന്റഗ്രൽ ഫോർമുലയിലേക്ക് നീങ്ങുന്നതായിരിക്കും ഇനി മൊറേറ തിയറം പറയുന്നത് എന്താണന്നു വച്ചാൽ f ഒരു സിംപ്ലി കണക്ടഡ് ഡൊമെയ്ൻ D യിൽ കണ്ടിന്യൂസ് ആണെന്നിരിക്കട്ടെ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ അനലിറ്റിസിറ്റിയെക്കുറിച്ച് അല്ല സംസാരിക്കുന്നത് ഇപ്പോൾ കോച്ചി തിയറം പറയുന്നത് f അനലിറ്റിക്ക് ആണ് എങ്കിൽ Cfzdz0 ആണ് എന്നാണ് എന്നാൽ ഇവിടെ നമുക്കുള്ളത് തിരിച്ചാണ് ഏതൊരു ക്ലോസ്ഡ് പാത C ക്കും Cfzdz0 യും f കണ്ടിന്യൂസും ആണ് എങ്കിൽ f അനലിറ്റിക്ക് ആയിരിക്കും അപ്പോൾ ഈ സിദ്ധാന്തം കോച്ചി സിദ്ധാന്തത്തിന് വിപരീതമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് കോച്ചി ഇന്റഗ്രൽ ഫോർമുലയിലേക്കു നീങ്ങാം കോച്ചി ഇന്റഗ്രൽ തിയറത്തിനു ആവശ്യമായിരുന്ന അനുമാനങ്ങൾ തന്നെയാണ് ഇവിടെയും വേണ്ടത് അതായത് ഒരു സിംപിൾ കണക്ടഡ് ഡൊമെയ്ൻ D യിലെ ഒരു പോയിന്റ് ആണ് z0 എന്നിരിക്കട്ടെ അതുപോലെ z0നെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു സിംപിൾ ക്ലോസ്ഡ് പാത ആണ് C അപ്പോൾ ഇവിടെ കോച്ചി ഇന്റഗ്രൽ തിയറവുമായുള്ള വ്യത്യാസം എന്താണന്നു നോക്കാം ഇവിടെ നമ്മുടെ ഫലം ഇങ്ങനെയാണ് Cfz z0dz2πif ഇവിടെ നമുക്ക് ഒരു പദം കൂടുതലായുണ്ട് അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ Cfzdz0 എന്നാകുമായിരുന്നു ഈ ഫലം എന്നാൽ ഇവിടെ നമുക്കുള്ളത് fz z0 എന്നാണ് അതായത് ഇവിടെ ഇന്റഗ്രന്റ് fz z0 ആണ് ഇത് ഒരിക്കലും ഡൊമൈനിൽ അനലിറ്റിക് ആവുകയില്ല കാരണം z0 എന്ന ബിന്ദു C അടക്കം ചെയ്തിരിക്കുന്ന ഡൊമൈനിൽ ഉണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ഇന്റഗ്രന്റ് അനലിറ്റിക് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഇന്റഗ്രൽ 0 ക്ക് തുല്യമല്ല അങ്ങനെ z z0 എന്ന പദം മൂലം ഇന്റഗ്രന്റ് അനലിറ്റിക്ക് അല്ല അതുകൊണ്ടു തന്നെ ഇന്റഗ്രലിന്റെ മൂല്യം 2πif എന്നാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോച്ചി ഇന്റഗ്രൽ ഫോർമുല എന്നു വിളിക്കുന്നത് ഇതിന് ഇന്റഗ്രന്റ് അനലിറ്റിക് അല്ലാത്തപ്പോൾ ഇന്റഗ്രലിന്റെമൂല്യം കാണുക തുടങ്ങി പല ഉപയോഗങ്ങളുണ്ട് 2πif എന്ന് എഴുതിയിരിക്കുന്ന ഈ ഫോർമുല ചിലപ്പോഴൊക്കെ നമ്മൾ fz012πiCfz z0dz എന്നും എഴുതാറുണ്ട് അപ്പോൾ ഇതിന്റെ തെളിവിലേക്ക് തിരികെ പോവുകയാണെങ്കിൽ ഇവിടെ Cfz z0dz എന്ന ഇന്റഗ്രന്റിന്റെ ഒപ്പം നമ്മൾf ഒരേ സമയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്കു കിട്ടും Cfz0fz fz z0dz എന്ന് ഇതിനെ നമുക്ക് രണ്ടു പദങ്ങളുടെ തുകയാക്കി എഴുതാം ആദ്യത്തേത് fz0C1z z0dz അതുപോലെ രണ്ടാമത്തേത് Cfz fz z0dz അങ്ങനെ ഈ ഇന്റഗ്രലിനെ നമ്മൾ രണ്ടു ഭാഗങ്ങളാക്കി പിരിച്ചെഴുതിയിരിക്കുന്നു മുൻ പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടിരുന്നു C1z z0dz എന്നത് 2πi ആണ് എന്ന് അങ്ങനെ ആദ്യത്തെ ഇന്റഗ്രൽ നമ്മൾ വിലയിരുത്തിയിരിക്കുന്നു അത് 2πif എന്നാണ് ഇനി നമുക്ക് Cfz fz z0dz എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഈ ഇന്റഗ്രലിന്റെ മൂല്യം കാണണം അതിനായി നമ്മൾ z0നെ ചുറ്റി ആരമുള്ള ഒരു വൃത്തം പരിഗണിക്കുന്നു ഇവിടെ ρδ ആണ് അപ്പോൾ എന്താണ് അത് എന്താണന്നു നമുക്ക് നോക്കാം ഇവിടെ f എന്നത് അനലിറ്റിക്ക് ആണ് എന്ന് തന്നിട്ടുണ്ട് അതുകൊണ്ടു തന്നെ അത് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് മൂല്യമുള്ള ഫംഗ്ഷനുകൾക്കുള്ള കണ്ടിന്യൂറ്റിയുടെ നിർവചനം നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഇവിടെ തന്നിരിക്കുന്ന നു നമുക്ക് ഒരു കണ്ടുപിടിക്കാൻ സാധിക്കും ഇവിടെ z z0δ എന്ന ഡിസ്കിലെ ഏതൊരു z നും fz fz0ϵ ആയിരിക്കും അങ്ങനെ ഈ ഉം യും കണ്ടിന്യൂറ്റിയുടെ നിർവ്വചനത്തിൽ നിന്നും വന്നതാണ് f കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നിരിക്കുന്ന ഏതൊരു നും ഈ ബന്ധം നിലനിൽക്കുന്ന രീതിയിൽ നമുക്ക് എല്ലായ്പ്പോഴും ഒരു കണ്ടെത്തുവാൻ സാധിക്കും ഇപ്പോൾ നമ്മളിവിടെ z0നെ ആരമുള്ള ഒരു വൃത്തത്തിനുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ ഇവിടെ ρδ ആണ് അങ്ങനെ തന്നിരിക്കുന്ന ക്ക് ρδ എന്ന രീതിയിയിൽ ഒരു തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് z0 നെ ആരമുള്ള ഒരു വൃത്തത്തിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ നമ്മൾ മുൻപ് പഠിച്ച രൂപഭേദതത്ത്വം ഉപയോഗിച്ച് നമുക്ക് C യിൽ കൂടിയുള്ള ഇന്റഗ്രൽ കാണാം നമ്മൾ പഠിച്ചിരുന്നു ഏത് പാതയിൽ എടുത്താലും ഇന്റഗ്രലിന്റെ മൂല്യം ഒന്നു തന്നെ ആണ് എന്ന് അപ്പോൾ ഡിഫോർമേഷൻ തത്ത്വം ഉപയോഗിച്ച് നമുക്ക് പറയാം Cfz fz z0dz എന്നത് Kfz fz z0dz എന്നതിനു തുല്യമാണ് എന്ന് മുൻപ് ഈ തത്ത്വം തെളിയിച്ചപ്പോൾ നമ്മൾ പരിഗണിച്ചത് ഫംഗ്ഷൻ അനലിറ്റിക്ക് ആവുന്ന ഒരു സിംപ്ലി കണക്ടഡ് ഡൊമെയ്ൻ ആയിരുന്നു നമ്മൾ തെളിയിച്ചു C യിലെ ഈ ഇന്റഗ്രലിന്റെ മൂല്യം ഡൊമെയ്നിലെ ഏതൊരു പാത നമ്മൾ എടുത്താലും അവിടെയുള്ള ഇന്റഗ്രലിന്റെ മൂല്യത്തിനു തുല്യമായിരിക്കും എന്ന് അപ്പോൾ മുൻപ് സൂചിപ്പിച്ച രണ്ട് ഇന്റഗ്രലുകളും തുല്യമാണ് എന്ന് നമുക്ക് കാണാം ഈ ഇന്റഗ്രൽ വളരെ ലളിതമായിരിക്കും കാരണം ഇവിടെ നമ്മൾ എടുക്കുന്ന പാത K എന്നത് ഒരു വൃത്തം ആണ് അപ്പോൾ K എന്നത് ആരമുള്ള ഒരു വൃത്തം ഇവിടെ നമ്മൾ എടുക്കുന്നത് ρδ എന്നാണ് ഇനി നമ്മൾ fz fz z0ρ എന്ന അസമത്വം ഉപയോഗിക്കും ഇവിടെ K എന്നത് z z0ρ എന്ന വൃത്തമാണ് അതുകൊണ്ട് ഇവിടെ z z0 എന്നതിനു പകരം എന്ന് എഴുതിയാൽ f കണ്ടിന്യൂസും ആയതു കൊണ്ട് നമുക്ക് കിട്ടും fz fz0ϵ എന്ന് അങ്ങനെ ഇവിടെ നമുക്ക് ഈ അസമത്വം ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇന്റഗ്രന്റിന്റെ പരിധി ആണ് കാരണം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ fz fz0ϵ ആണ് അതുപോലെ z z0ρ യും ആണ് ഈ അസമത്വം അല്ലെങ്കിൽ പരിധി വച്ചു കൊണ്ട് നമ്മൾ മുൻ പ്രഭാഷണങ്ങളിൽ ചർച്ച ചെയ്ത M L അസമത്വം കൂടി ഇവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഇന്റഗ്രലിന്റെ കേവല മൂല്യം Cfzdzഎന്നത് ML നാൽ പരിമിതപ്പെട്ടിരിക്കുന്നു ഇവിടെ L എന്നത് പാതയുടെ നീളവും അതുപോലെ M എന്നത് ഇന്റഗ്രന്റിന്റെ അപ്പർ ബൌണ്ടും ആണ് ഇനി ഇന്റഗ്രന്റിന്റെ അപ്പർ ബൌണ്ട് എന്താണ് എന്ന് നമുക്ക് അറിയാം അത് ആണ് അതുപോലെ കേർവിന്റെ നീളം 2πρ ആണ് കാരണം ഇവിടെ കേർവ് K എന്നത് ആരം ഉള്ള ഒരു വൃത്തം ആണ് അതിനാൽ കേർവിന്റെ നീളം എന്നു പറയുന്നത് ഈ വൃത്തത്തിന്റെ ചുറ്റളവ് ആണ് ഇത് ലഘൂകരിക്കുകയാണെങ്കിൽ 2πϵ എന്ന് നമുക്ക് കിട്ടും ഈ ഇന്റഗ്രലിന്റെ മൂല്യമാണ് ഇവിടെ മുഖ്യം ഇവിടെ ഇന്റഗ്രലിന്റെ കേവലമൂല്യം 2πϵ എന്ന മൂല്യത്താൽ പരിമിതപ്പെടുത്തുക പെട്ടിരിക്കുന്നു ഇവിടെ എന്നത് ഏകപക്ഷീയമാണ് അതുകൊണ്ട് f ന്റെ കണ്ടിന്യൂറ്റിയിൽ നിന്നും നമുക്ക് പറയാൻ സാധിക്കും തന്നിരിക്കുന്ന എത്ര ചെറിയ നും ഇന്റഗ്രലിന്റെ മൂല്യം പൂജ്യത്തിലേക്ക് പോകും കാരണം ഇവിടെ ഇന്റഗ്രലിന്റെ മൂല്യം 2πϵ എന്ന മൂല്യത്താൽ പരിമിതപ്പെട്ടിരിക്കുന്നു അതുപോലെ നമ്മൾ പറയുന്നത് ന്റെ മൂല്യം ഏകപക്ഷീയമായി എത്ര ചെറിയ മൂല്യം വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് ഇന്റഗ്രലിന്റെ മൂല്യം 0 ആവണം എന്നാണ് കാരണം അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു നെ സംബന്ധിച്ചിടത്തോളം ഇന്റഗ്രലിന്റെ മൂല്യം എപ്പോഴും 2πϵ എന്ന മൂല്യത്തെക്കാൾ ചെറുതായിരിക്കുക സാധ്യമല്ല ഇനി ഈ ഇന്റഗ്രലിനെ പിരിച്ചെഴുത്തിയാൽ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ ഭാഗത്തിന്റെ മൂല്യം നമ്മൾ മുൻപ് കണ്ടതുപോലെ 2πif ആണ് അതുപോലെ നമ്മൾ കണ്ടു രണ്ടാമത്തെ ഭാഗം 0 ആണ് എന്ന് അങ്ങനെ നമുക്ക് കോച്ചി ഇന്റഗ്രൽ ഫോർമുല തെളിയിക്കുവാൻ സാധിച്ചു അതായത് ഇന്റഗ്രലിന്റെ മൂല്യം 2πif ആണ് എന്ന് ഇനി ഈ തിയറത്തിനു മൾട്ടിപ്പിൾ കണക്ടഡ് ഡൊമെയ്നിനെ സംബന്ധിച്ച ഒരു വിപുലീകരണം കൂടി ഉണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് സിംപിൾ കണക്ടഡ് ഡൊമെയ്നിന് ഈ തിയറം ബാധകമാണ് എന്ന് ഇനി മൾട്ടിപ്പിൾ കണക്ടഡ് ഡൊമെയ്നിനെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ പുറമേയുള്ള കേർവ് എതിർഘടികാരദിശയിലും ഉള്ളിലുള്ളത് ഘടികാരദിശയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മുടെ തിയറം ഇങ്ങനെയാണ് fz012πiC1fz z0dz12πiC2fz z0dz| നമുക്ക് വേണ്ടത്ര ഹോളുകൾ എടുക്കാവുന്നതാണ് ഉദാഹാരണത്തിന് ഇവിടെ C1C2C3C4 തുടങ്ങിയവയുടെ എല്ലാം ഉള്ളിൽ ഹോളുകളാണ് അങ്ങനെയുള്ള ഒരുപാടു ഹോളുകൾ ഉണ്ടാവാം അതുപോലെ ഉള്ളിലുള്ള വൃത്തം ഘടികാരദിശയിലും പുറമേയുള്ളത് എതിർ ഘടികാര ദിശയിലും ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഫലം നിലനിക്കുകയുള്ളു അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രലുകളുടെ തുക f നു തുല്യമായിരിക്കും ഇത് വച്ചു കൊണ്ടു തന്നെ ഉള്ളിലുള്ള ഏതെങ്കിലും കേർവുകളും എതിർഘടികാരദിശയിൽ ആയിരുന്നു എങ്കിൽ ഈ ഇന്റഗ്രൽ എങ്ങനെ ആകുമായിരുന്നു എന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ C2 നെ എതിർ ഘടികാരദിശയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള പ്ലസ് ചിഹ്നം മൈനസ് ചിഹ്നം ആകും അപ്പോൾ നമുക്ക് കിട്ടും fz012πiC1fz z0dz 12πiC2fz z0dz എന്ന് അങ്ങനെ ഇതും സാധ്യമാണ് അതുകൊണ്ട് നമ്മൾ ഘടികാരദിശയിൽ ആയിരുന്നു എടുക്കുന്നതെങ്കിൽ ഇവ രണ്ടും കൂടി കൂട്ടുമായിരുന്നു അല്ലാത്തപക്ഷം ഇവയുടെ വ്യകലനം ആണ് ഇന്റഗ്രലിന്റെ മൂല്യം ഇനി നമുക്ക് കുറച്ച് ഇന്റഗ്രലുകൾ വിലയിരുത്താം ആദ്യം നമുക്ക് Ctan z dz എന്താണ് എന്ന് നോക്കാം ഇവിടെ C എന്നത് z32 എന്ന വൃത്തമാണ് അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഇന്റഗ്രന്റ് ഇന്റഗ്രൽ ഫോർമുലയുമായി പൊരുത്തപ്പെടുന്നതാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ നമുക്കുള്ളത് z1 എന്നാണ് ആദ്യം നമുക്ക് ഈ ഇന്റഗ്രാന്റ് f ന്റെ സിംഗുലാരിറ്റീസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം അവ സ്വാഭാവികമായും z1 ലും z 1 ലും ആയിരിക്കും ഇവിടെ പ്രശ്നം എന്താണെന്ന് വച്ചാൽ ഈ പോയിന്റുകളിൽ ഡിനോമിനേറ്റർ 0 ആകും അതുകൊണ്ട് ഈ പോയിന്റുകളിലും അതുപോലെ 2 3π2 തുടങ്ങിയവയിലും tan ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആകും അപ്പോൾ ഈ ബിന്ദുകളിൽ ഒന്നിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബ്ളോ അനലിറ്റിക്കോ അല്ല അതുകൊണ്ട് ഈ പോയിന്റുകളെ f എന്ന ഇന്റഗ്രന്റിന്റെ സിംഗുലാർ പോയിന്റുകൾ എന്ന് വിളിക്കാം ഇവിടെ നമുക്ക് ഫംഗ്ഷൻ എവിടെയൊക്കെ ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ അനലിറ്റിക് അല്ല എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കാരണം ഫംഗ്ഷൻ എല്ലായിടത്തും അനലിറ്റിക്ക് ആയിരുന്നു എങ്കിൽ നമുക്ക് നേരെ കോച്ചി തിയറം ഉപയോഗിച്ച് ഇന്റഗ്രലിന്റെ മൂല്യം 0 എന്നു പറയാമായിരുന്നു എന്നാലിവിടെ നമ്മൾ പരിഗണിച്ച വൃത്തത്തിന്റെ ആരം 32 ആയതിനാൽ 2 3π2 തുടങ്ങിയവയെല്ലാം സിംഗുലാരിറ്റികൾ ആണ് ഇവിടെ z 1 ഉം z1 ഉം മാത്രമാണ് ഡൊമെയ്നിനു ഉള്ളിലുള്ളത് 2 പോലുള്ള മറ്റു പോയിന്റുകൾ ഡൊമെയ്നിനു പുറത്താണ് കാരണം എന്നത് 3 ലും വലുതാണ് അതുകൊണ്ട് 2 എന്നത് ഡൊമെയ്നിനു പുറത്താണ് അതുപോലെ 3π2 ഉം ഡൊമെയ്നിനു അല്ലെങ്കിൽ C ക്കു പുറത്താണ് അങ്ങനെ ഇവിടെ 2 3π2 തുടങ്ങിയവയെല്ലാം ഡൊമെയ്നിനു പുറത്താണ് അതുകൊണ്ട് അവയെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നാൽ z 1ഉം z1ഉം C എന്ന വൃത്തത്തിനു ഉള്ളിലാണ് അതുകൊണ്ട് നമ്മൾ ഈ രണ്ടു പോയിന്റുകളെ ഫംഗ്ഷൻ അനലിറ്റിക്ക് ആവാത്ത പോയിന്റുകൾ എന്ന് പരിഗണിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്കുള്ളത് tan z എന്നാണ് ഇതിനെ നമുക്ക് tan z z1 എന്നെഴുതാം പിന്നെ വീണ്ടും നമുക്ക് ഇതിനെ tan z 21 1z1 എന്ന പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി എഴുതാം അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇന്റഗ്രൽ 12Ctan z dz എന്നും രണ്ടാമത്തെ ഇന്റഗ്രൽ 12Ctan z z1dz എന്നും ആണ് അതായത് ഇപ്പോൾ ഫംഗ്ഷൻ fzz 1 എന്ന രീതിയിൽ അല്ലെങ്കിൽ കോച്ചി ഇന്റഗ്രൽ ഫോർമുല പ്രയോഗിക്കാം എന്ന രീതിയിൽ ആയിരിക്കുന്നു ഇവിടെ 1 ഉം 1 ഉം വൃത്തത്തിനു ഉള്ളിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്കുള്ളത് 12 ഗുണം 2πi ഗുണം tan 1 എന്നാണ് അതു പോലെ രണ്ടാമത്തെ ഇന്റഗ്രലിന്റെ മൂല്യം 12 ഗുണം 2πi ഗുണം tan എന്നാണ് അങ്ങനെ ഈ ഇന്റഗ്രലിന്റെ മൂല്യം 2πitan 1എന്ന് നമുക്ക് കിട്ടും ഇതു കണ്ടെത്തുന്നതിനായി നമ്മൾ ഉപയോഗിച്ചത് കോച്ചി ഇന്റഗ്രൽ ഫോർമുല ആണ് ഇനി അനലിറ്റിക്ക് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റിവിനെ സംബന്ധിച്ച മറ്റൊരു ഫോർമുല കൂടിയുണ്ട് ഇത് നമ്മൾ മുൻപ് കണ്ട കോച്ചി ഇന്റഗ്രൽ ഫോർമുലയോട് വളരെയധികം സാമ്യമുള്ളതാണ് അപ്പോൾ f ഒരു ഡൊമെയ്ൻ D യിൽ അനലിറ്റിക്ക് ആണ് എങ്കിൽ zz0 എന്ന ബിന്ദുവിലെ അതിന്റെ ഡെറിവേറ്റിവ് fnz0 n 2πiCfz z0n1dz എന്ന ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ച് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു അനലിറ്റിക്ക് ഫംഗ്ഷന്റെ ഡെറിവേറ്റിവ് ഒരു കേർവ് ഇന്റഗ്രൽ ഉപയോഗിച്ചു കാണാം എന്നത് വളരെ കൌതുകകരമായ എന്നാൽ അതേ സമയം ഒരുപാട് പ്രയോഗങ്ങൾ ഉള്ള ഒരു വസ്തുത ആണ് ഇവിടെ C എന്നത് ഡൊമെയ്ൻ D യിൽ ഉള്ള z0 നെ അടക്കം ചെയ്യുന്ന ഒരു സിംപിൾ ക്ലോസ്ഡ് കേർവ് ആണ് ഇവിടെ ഡൊമെയ്ൻ D യിൽ ഫംഗ്ഷൻ അനലിറ്റിക്ക് ആവണം എന്നതു മാത്രമാണ് ഒരേയൊരു വ്യവസ്ഥ അപ്പോൾ കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് മുകളിൽ പറഞ്ഞ ഫലം മനിസ്സിലാക്കാവുന്നതാണ് കോച്ചി ഇന്റഗ്രൽ ഫോർമുല പറയുന്നത് ഇങ്ങനെയാണ് fz012πiCfz z0dz ഇതിൽ നിന്നും നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം അതിനു ശേഷം അത് സാമാന്യവത്കരിക്കാം അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നതിനായി fz0z0 എന്ന ഇൻക്രിമന്റ് എടുക്കുക അതിനുശേഷം നമുക്ക് ഡിഫറൻഷ്യബലിറ്റിയെക്കുറിച്ചുള്ള അടിസ്ഥാന സിദ്ധാന്തം പ്രയോഗിക്കാം അപ്പോൾ ഇവിടെ z0 എന്നൊരു ഇൻക്രിമന്റ് ഉള്ളതുകൊണ്ട് fz0z0 നെ നമുക്ക് 12πiCfz z0 z0dz എന്ന് എഴുതാം അതായത് ഇവിടെ z0 എന്നതിനു പകരം z0z0 എന്നാവും അതുപോലെ z z0 എന്നതിനു പകരം z z0 z0 എന്നും എഴുതാം അപ്പോൾ ഇതാണ് ഫലം ഇവിടെ fz0z0 എന്നതിനെ നമുക്ക് fz0z0 fz0 എന്ന രീതിയിലും നോക്കാം അതുപോലെ ഈ ഇന്റഗ്രൽ എന്നു പറയുന്നത് 12πiCf1z z0 z0 1z z0dz എന്നും ആണ് ഇനി ഇത് നമുക്ക് ഒന്ന് ലഘൂകരിക്കാം ഇവിടെ രണ്ടു വശങ്ങളിലും ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം limfz0z0 fz0 f ആണ് എന്ന് അതുപോലെ ഇന്റഗ്രലിന്റെ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടും 12πiCfzz z02dz എന്ന് ഇപ്പോൾ ഒരിടത്തും z0 ഇല്ല അങ്ങനെ നമുക്ക് ഡെറിവേറ്റിവിന്റെ ഫോർമുല കിട്ടും f12πiCfzz z02dz ഇത് ഫസ്റ്റ് ഡെറിവേറ്റിവിന്റെ കാര്യമാണ് ഇതുപോലെ തന്നെ നമുക്ക് മുകളിലേക്കുള്ള ഡെറിവേറ്റിവുകളും കാണാം എന്നാൽ ഇപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല കാരണം കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ച് ഉയർന്ന ഓർഡറുകളിൽ ഉള്ള ഡെറിവേറ്റിവുകൾ എങ്ങനെ എഴുതാം എന്നതിനെപ്പറ്റി ഇപ്പോൾ നമുക്ക് ആശയമുണ്ട് ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത z0 എന്ന ബിന്ദു ഏകപക്ഷീയമാണ് അതുപോലെ f ന്റെ മറ്റു ഓർഡറുകളിലുള്ള ഡെറിവേറ്റിവുകളും D യിൽ അനലിറ്റിക്ക് ആണ് അപ്പോൾ നമ്മൾ കണ്ടത് ഇതാണ് f അനലിക്ക് ആണെങ്കിൽ f ഡൊമെയ്നിലെ ഏതു പോയിന്റിലും f ഉം അനലിറ്റിക്ക് ആയിരിക്കും അങ്ങനെ f D യിൽ അനലിറ്റിക്ക് ആണെങ്കിൽ f ന്റെ എല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റിവുകളും D യിൽ അനലിറ്റിക്ക് ആയിരിക്കും എന്ന് നമുക്ക് കിട്ടി ഇത് വളരെ കൌതുകകരമായ ഒരു ഫലമാണ് f D യിൽ അനലിറ്റിക്ക് ആണെങ്കിൽ f ന്റെ എല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റിവുകളും D യിൽ അനലിറ്റിക്ക് ആയിരിക്കും എന്നത് ഈ ഫലം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് തെളിയിക്കുന്നതാണ് അതുപോലെതന്നെ f അനലിറ്റിക്ക് ആണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ ഈ ഡെറിവേറ്റിവുകളുടെ മൂല്യം വളരെ എളുപ്പത്തിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് Ce2zz14dz എന്ന ഉദാഹരണം നോക്കാം ഈ ഇന്റഗ്രൽ എങ്ങനെ വിലയിരുത്താം എന്ന് നോക്കാം ഇവിടെ C എന്നു പറയുന്നത് z3 എന്ന കേർവ് ആണ് അതായത് ആരo 3 ഉം കേന്ദ്രം 0 വും ഉള്ള ഒരു വൃത്തം ആണ് കോച്ചി ഇന്റാ ഗ്രൽ ഫോർമുല പറയുന്നത് f3z03 2πiCe2zz14dz ആണ് എന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് z14എന്നാണ് ഉള്ളത് അതുപോലെ ഇവിടെ fze2z എന്ന് എടുക്കാം പിന്നെ z0 1 n3 യും ആണ് അതുപോലെ ഫസ്റ്റ് ഡെറിവേറ്റിവ് 2e2z ആണ് fz ന്റെ ഡെറിവേറ്റിവ് 1 ൽ 2e2 ആണ് പിന്നെ സെക്കന്റ് ഡെറിവേറ്റിവ് 4e2ഉം അതുപോലെ തേർഡ് ഡെറിവേറ്റിവ് 8e2 ഉം ആണ് ഇവിടെ ഇൻറെഗ്രലിന്റെ മൂല്യം കാണുന്നതിനായി നമുക്ക് ആവശ്യമുള്ളത് തേർഡ് ഡെറിവേറ്റീവ് ആണ് അപ്പോൾ നമ്മൾ മുൻപു പറഞ്ഞ ഫോർമുലയിൽ തേർഡ് ഡെറിവേറ്റിവിന്റെ മൂല്യം കൊടുക്കയാണെങ്കിൽ 3 2πiCe2zz14dz എന്ന് നമുക്ക് കിട്ടും ഇനി ഈ 3 2πi യെ ഇടതുവശത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇന്റഗ്രലിന്റെ മൂല്യം 8πi3e2എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഉദാഹരണം ഇന്റഗ്രലിന്റെ മൂല്യം കോച്ചി ഇന്റഗ്രൽ ഫോർമുലയുടെ നേരിട്ടുള്ള പ്രയോഗത്തിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വ്യക്തമാക്കുന്നു ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം നമുക്ക് Ceztz21dz എങ്ങനെ വിലയിരുത്താം എന്ന് നോക്കാം ഇവിടെ C എന്നത് z3 എന്ന വൃത്തമാണ് അപ്പോൾ വീണ്ടും നമുക്ക് കേന്ദ്രം 0 വും ആരം 3 ഉം ഉള്ള ഒരു വൃത്തം ആണ് ഉള്ളത് ഇവിടുത്തെ സിംഗുലാരിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം z21zi ആണ് എന്ന് അതുകൊണ്ടു തന്നെ ഇവിടെ സിംഗുലാരിറ്റീസ് എന്നത് zi യിലും z i യും ആണ് ഇവിടെ ഫംഗ്ഷൻ കുറച്ചു പ്രശ്നമാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫംഗ്ഷനെ നമ്മൾ മറ്റൊരു ഉദാഹരണത്തിൽ കണ്ടതുപോലെ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതേണ്ടതുണ്ട് അങ്ങനെ ഇവിടെ നമുക്കുള്ളത് Cezt2i1z i 1zidt ഇത് രണ്ടിലും നമുക്ക് കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ z0i യും പിന്നെ അടുത്തതിൽ z0 i യും ആണ് അങ്ങനെ ഇതിൽ രണ്ടിലും നമുക്ക് കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാവുന്നതാണ് കോച്ചി ഇന്റഗ്രൽ ഫോർമുല അനുസരിച്ച് ഈ ഇന്റഗ്രലിന്റെ മൂല്യം 12i2πieit e it എന്നാണ് അപ്പോൾ ഈ ഫോർമുല നമുക്ക് കിട്ടി ഇനി ഇതിനെ നമുക്ക് സൈൻ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ എഴുതാം ഇവിടെ 12ieit e it എന്നതിനെ sin t എന്ന് എഴുതാം അപ്പോൾ ഈ ഇന്റഗ്രലിനെ നമ്മൾ സമീപിച്ചത് ഇങ്ങനെയായിരുന്നു ആദ്യം നമ്മൾ കോച്ചി ഇന്റഗ്രൽ ഫോർമുല പ്രയോഗിച്ചു അതിനുശേഷം സൈൻ ഫംഗ്ഷന്റെ ഫോർമുലയും പ്രയോഗിച്ചു അപ്പോൾ നമുക്കു കിട്ടി 2πisin t എന്ന് ഈ ഇന്റഗ്രലിനെ നമുക്ക് മറ്റൊരു രീതിയിലും സമീപിക്കാം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ zi യെയും z i യെയും അടക്കം ചെയ്യുന്ന രണ്ട് വൃത്തങ്ങൾ കൂടി പരിഗണിക്കുക എന്നതാണ് ഇവിടെ ആദ്യത്തെ വൃത്തത്തെ നമുക്ക് C1 എന്നും രണ്ടാമത്തേതിനെ നമുക്ക് C2 എന്നും വിളിക്കാം അപ്പോൾ ഇവിടെ പ്രശ്നമുണ്ടായിരുന്ന രണ്ടു പോയിന്റുകളെ ചുറ്റി നമ്മൾ രണ്ടു വൃത്തങ്ങൾ C1 ഉം C2 വും വരച്ചു ഇനി നമുക്ക് മൾട്ടിപ്പിൾ കണക്ടഡ് ഡൊമെയ്നിനായുള്ള ഈ ഫോർമുലയുടെ വിപുലീകരണം ഉപയോഗിക്കാം അപ്പോൾ ഈ മുഴുവൻ ഇന്റഗ്രന്റ് f ന്റെ C ലെ ഇന്റഗ്രലിനെ C1 ലെ ഇന്റഗ്രലിന്റെയും C2 വിലെ ഇന്റഗ്രലിന്റെയും തുകയായി എഴുതാം അപ്പോൾ C1 ൽ കൂടിയുള്ള ഇന്റഗ്രൽ അതിനായി നമ്മൾ z i യെ എടുത്തിട്ട് ഫംഗ്ഷൻ eztzi എന്ന് എഴുതും കാരണം അങ്ങനെ എഴുതുമ്പോൾ ന്യൂമറേറ്റർ ഇവിടെ അനലിറ്റിക് ആണ് അതുകൊണ്ടു തന്നെ ഇപ്പോൾ ഇന്റഗ്രന്റ് കോച്ചി ഇന്റഗ്രൽ ഫോർമുല പ്രയോഗിക്കാൻ പാകത്തിനാണ് അതുപോലെ C2വിൽ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ eztz i എന്നതിനെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കും പിന്നെ നമുക്ക് ഇവിടെ zi യും dz ഉം ഉണ്ട് അങ്ങനെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഇതാണ് ഇന്റഗ്രൽ കാണുന്നതിനായുള്ള മറ്റൊരു സമീപനം ഇവിടെ പാർഷ്യൻ ഫ്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്റഗ്രന്റിനെ eztziz ieztz izi എന്നിവയുടെ തുകയായിട്ട് എഴുതി അതിനുശേഷം മൾട്ടിപ്പിൾ കണക്ടഡ് ഡൊമെയ്നിനായുള്ള ഫോർമുല നമ്മൾ ഉപയോഗിച്ചു അങ്ങനെ ചെയ്യുമ്പോൾ ഇന്റഗ്രലിന്റെ മൂല്യം 2πieit2ie it 2i എന്ന് നമുക്ക് കിട്ടും ഇത് sin t ക്കു തുല്യമാണ് അപ്പോൾ eit2ie it 2isin t ഇത് പാർഷ്യൽ ഫ്രാക്ഷനുകൾ നേരിട്ട് വിലയിരുത്താതെ കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ചു കൊണ്ട് ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഉദാഹരണം ആയിരുന്നു ഇനി നമുക്കുള്ള മറ്റൊരു ഉദാഹരണം Cz z 63dz ഇവിടെ z z 63 ആണ് ഇന്റഗ്രന്റ് അതുകൊണ്ട് ഇവിടെ നമുക്ക് നേരിട്ട് കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ z06ഉം n2 വും ആണ് കാരണം 213 ആണ് അതു കൊണ്ട് ഇവിടെ നമുക്ക് n2 എന്ന് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവിടെ വേണ്ടത് സെക്കന്റ് ഡെറിവേറ്റിവ് ആണ് അപ്പോൾ സെക്കന്റ് ഓർഡർ ഡെറിവേറ്റിവ് ഉപയോഗിച്ചാൽ ഇത് കോച്ചി ഇന്റഗ്രൽ ഫോർമുലയ്ക്ക് കൃത്യമായും അനുയോജ്യമാണ് ഇവിടെ നമുക്ക് കാണാം fz6z cos z ആണ് അതു പോലെ ഇതിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം 6 ൽ സെക്കന്റ് ഓർഡർ ഡെറിവേറ്റിവിന്റെ മൂല്യം 2116ആണ് എന്ന് അങ്ങനെ ഇവിടെ കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും തന്നിരിക്കുന്ന ഇന്റഗ്രലിന്റെ മൂല്യം i2116 ആണ് എന്ന് ഇനി നമുക്ക് അവസാനത്തെ ഉദാഹരണം നോക്കാം ഇവിടെ വരുന്നുണ്ട് അതുപോലെ C യുടെ കേന്ദ്രം 10 യും ആരം 1 ഉം ആണ് അതുപോലെ ഇവിടെ z±1സിംഗുലാരിറ്റീസ് ആണ് പിന്നെ z 1എന്നത് C എന്ന വൃത്തത്തിനു പുറത്തായത് കൊണ്ട് z1എന്ന സിംഗുലാരിറ്റി മാത്രമേ നമ്മൾ പരിഗണിക്കേണ്ടതായുള്ളു അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ആദ്യത്തെ സമീപനം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇന്റഗ്രന്റിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആയി വിഭജിച്ച് എഴുതിയശേഷം ഓരോ ഇന്റഗ്രലും വിലയിരുത്തുക എന്നതാണ് വാസ്തവത്തിൽ ഇവിടെ രണ്ടാമത്തെ ഇന്റഗ്രലിൽ z1ഉള്ളതുകൊണ്ട് z 1സിംഗുലാരിറ്റി ആണെങ്കിലും അത് ഡൊമെയ്നിനു പുറത്തായത് കൊണ്ട് C യിലും C യുടെ ഉള്ളിലും ഫംഗ്ഷൻ അനലിറ്റിക്ക് ആണ് എന്നു പറയാം അങ്ങനെ ഫംഗ്ഷൻ അനലിറ്റിക് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കോച്ചി ഇന്റഗ്രൽ തിയറം ഉപയോഗിക്കാം അങ്ങനെ ആദ്യത്തെ ഇന്റഗ്രലിൽ നമ്മൾ കോച്ചി ഇന്റഗ്രൽ ഫോർമുലയും രണ്ടാമത്തേതിൽ കോച്ചി ഇന്റഗ്രൽ തിയറവും ഉപയോഗിക്കുന്നു അങ്ങനെയാകുമ്പോൾ ഈ ഇന്റഗ്രലിന്റെ മൂല്യം 122πi310 അല്ലെങ്കിൽ 2πi എന്ന് നമുക്ക് കിട്ടും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും നമുക്ക് ഈ ഇന്റഗ്രലിനെ സമീപിക്കാം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഇന്റഗ്രലിനെ നമുക്ക് C 3z2zz1z 1dz എന്ന് എഴുതാം ഇനി നമ്മൾ 3z2zz1z 1 എന്നതിനെ പരിഗണിക്കുകയാണെങ്കിൽ നമുക്കറിയാം 3z2zz1 എന്നത് നമ്മുടെ ഡൊമൈനിൽ അനലിറ്റിക് ആണ് എന്ന് അതുകൊണ്ട് ഇവിടെ കോച്ചി ഇന്റഗ്രൽ ഫോർമുല പ്രയോഗിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല അപ്പോൾ ഈ ഇന്റഗ്രലിന്റെ മൂല്യം 3z2zz1 യെ z1 ൽ വിലയിരുത്തിയ ശേഷം അതിനെ 2πi കൊണ്ട് ഗുണിക്കുന്നതാവും അങ്ങനെ ഇവിടെ നമുക്ക് കിട്ടി ഇന്റഗ്രലിന്റെ മൂല്യം 2πi424πi എന്ന് അങ്ങനെ ഇത് ഇന്റഗ്രൽ കാണുന്നതിനു നമുക്ക് സ്വീകരിക്കാവുന്ന മറ്റൊരു സമീപനമാണ് ഇവിടെ നമുക്ക് ആവശ്യമില്ലാതെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കേണ്ടതായി വരുന്നില്ല നമ്മൾ വെറുതെ ഇന്റഗ്രന്റിനെ ന്യൂമറേറ്റർ അനലിറ്റിക് ആവുന്ന രീതിയിൽ മാറ്റിയെഴുതി ഇവിടെ z1ആയിരുന്നു പ്രശ്നമുണ്ടാക്കുന്ന ബിന്ദു അതുകൊണ്ട് അതിനെ നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുത്ത ശേഷം കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ച് ഈ ഇന്റഗ്രൽ വിലയിരുത്തി അപ്പോൾ ഇവയൊക്കെയാണ് ഈ പ്രഭാഷണം തയ്യാറാക്കുന്നതിനായി ഉപയോഗിച്ച് റഫറൻസുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നമ്മൾ ഇന്ന് പഠിച്ചത് കോച്ചി ഇന്റഗ്രൽ ഫോർമുലയാണ് ഇത് ഇന്റഗ്രലുകൾ വിലയിരുത്തുന്നതിനു വളരെ ഉപകാരപ്രദമാണ് അതുപോലെ ഇതിന്റെ ഒരു വിപുലീകരണം എന്ന രീതിയിൽ നമ്മൾ ഡെറിവേറ്റിവ് ഫോർമുല കണ്ടു അല്ലെങ്കിൽ നമുക്കു പറയാം ഈ ഡെറിവേറ്റിവ് ഫോർമുലയുടെ ഒരു പ്രത്യേക കേസ് ആണ് കോച്ചി ഇന്റഗ്രൽ ഫോർമുല എന്ന് ഈ ഫോർമുലയിൽ നമ്മൾ n0 എന്നു കൊടുത്താൽ നമുക്ക് n 1എന്നു കിട്ടും അപ്പോൾ നമുക്ക് കോച്ചി ഇന്റഗ്രൽ ഫോർമുല കിട്ടും അങ്ങനെ കോച്ചി ഇന്റഗ്രൽ ഫോർമുല എന്നത് ഡെറിവേറ്റിവ് ഫോർമുലയുടെ ഒരു പ്രത്യേക കേസ് ആണ് ഇത് കോച്ചി ഇന്റഗ്രൽ ഫോർമുലയാണ് കോച്ചി ഇന്റഗ്രൽ തിയറം അല്ല കോച്ചി ഇന്റഗ്രൽ തിയറത്തിൽ നമുക്ക് അനലിറ്റിക്ക് ഫംഗ്ഷനും പിന്നെ ഇന്റാഗലിന്റെ മൂല്യം 0 എന്നും ആയിരുന്നു ഉണ്ടായിരുന്നത്